നമസ്കാരം ക്ലൌഡ് കംപ്യൂട്ടിങ്ങിന്റെ ഉപയാഗിക്കുന്നത് അവിടെ ഇതിനെ ഒരു സർവീസ് രീതിയിൽ ആണ് ക്ലൌഡിൽ ഉപയോഗിക്കുന്നത് അതിനെ കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം ഈ ഓപ്പൺ സ്റ്റാക്കിനെ വച്ച് തന്നെ നമുക്ക് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ഇതിന്റെ ക്ലൌഡിൽ ഉള്ള ഐഎഎസ് തരത്തിലുള്ള പെർഫോമൻസ്സ് കാണാനും സാധിക്കും ഓപ്പൺ സ്റ്റാക്ക് എന്നത് ക്ലൌഡ് ഓപ്പറേറ്റിങ്ങ് സിസ്റ്റം ആവശ്യമുള്ള റിസോഴ്സുകളെ എടുക്കുവാൻ സഹായിക്കുന്നു ഇവിടെ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു കൂട്ടം റിസോഴ്സുകൾ ഉണ്ട് അത് മെറ്റൽ റിസോഴ്സിന്റെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു ഇത് നമുക്ക് PC യിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് വിദ്യാർത്ഥികളുടെ ചെറിയ പ്രോജക്റ്റുകൾക്ക് ഇത് നമ്മൾ നോക്കിയതാണ് ഇത് ക്ലൌഡ്നെ പോലെ സവിശേഷമായ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ജോലി ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കാട്ടിതരുന്നു അതിൽ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്നും കാട്ടി തരുന്നു ഓപ്പൺ സ്റ്റാക്കിൽ ഒരുപാട് കഴിവുകൾ ഉണ്ട് പക്ഷെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർറിനെ സർവീസ് ആക്കി ഉള്ളതാണ് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ച്ചറിനെ സർവീസ് ആക്കി ചെയ്യുമ്പോൾ നമ്മക്ക് നെറ്റ്വർക്ക് സ്റ്റോറേജിനെ കണക്കുകൂട്ടുവാൻ സാധിക്കും അത് നമുക്ക് പാസ് ആയിട്ട് നമ്മുടെ കൈയിൽ ഉള്ളത് CPU RAM സ്റ്റോറേജ് ഡേറ്റാ സെന്റർ നെറ്റ്വർക്ക് അങ്ങനെയുള്ളവയാണ് ഇവിടെ ചില ഡെവലപ്പറുകൾ സർവീസായിട്ടും ചില സോഫ്റ്റ്വെയറുകൾ സർവീസായിട്ടും ഉണ്ട് ഇനി ഓപ്പൺ സ്റ്റാക്കിനെ ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് നോക്കുന്നതെങ്കിൽ അതിൻറെ കഴിവുകളായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള VM തരുന്നത് കാണാം അതിൽ പ്രൊവിഷനിങ്ങും അവിടെ ഉണ്ട് അതിൻറെ കൂടെ ഉപഭോക്താവിന് ഒരുപാട് പ്രോജക്ടുകളുമായി ബന്ധപ്പെടാം ചുരുക്കി പറഞ്ഞാൽ ഇത് നമുക്ക് ക്ലൌഡിന്റെ പൂർണ്ണമായ ഒരു അനുഭവം തരും കാരണം ഒരു ഓപ്പൺ സോഴ്സിനെ ആണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾക്ക് അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവിനെയും ഫിസിക്കലിനേയും നിയന്ത്രിക്കാൻ സാധിക്കും ഹാർഡ്വെയർ ഇത് നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്നു ഇത് ഒറ്റയ്ക്കുള്ള ഉപഭോക്താക്കൾക്കും ഒരു കൂട്ടം ആയിട്ടുള്ളവർക്കും ലാബിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ് അവർക്ക് രണ്ടു PC യിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലോ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു കൊണ്ടിരിക്കുകയാണ് റിസോഴ്സിനെ ക്ലൌഡിൽ കൈകാര്യം ചെയ്യുന്നത് റിസോഴ്സിനെ കൈകാര്യം ചെയ്യുന്നത് പവറിനെ കൈകാര്യം ചെയ്യുന്നത്പിന്നെ ആൾക്കാർ ഗ്രീൻ ക്ലൌഡ് നെക്കുറിച്ചും പറയാറുണ്ട് ഇതുപോലെത്തെ വലിയ സ്കെയിലിൽ ഉള്ള നടത്തിപ്പുകൾ നമ്മൾ ക്ലൌഡിന്റെ ഓപ്പൺ സോഴ്സ്സിൽ ചെയ്യാറുണ്ട് ഇത് നമുക്ക് ക്ലൌഡിന്റെ പലതരത്തിലുള്ള പരാമീറ്ററുകളെ അനുഭവിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഓപ്പൺ സ്റ്റാക്ക് എന്നത് ക്ലൌഡിന്റെ ഓപ്പൺ സോഴ്സ്സിലെ പ്രശസ്തമായ ഒന്നാണ് ഓപ്പൺ സ്റ്റാക്കിന്റെ ചരിത്രത്തിലെക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നാസയും റാക്സ്പെയിസും ഒത്തു ചേർന്നാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് എന്ന് വർഷങ്ങൾ എടുത്തു ഇത് ചെയ്തു തീർക്കാൻ ഈ സമയത്തിനുള്ളിൽ ഇത് ഒരുപാട് തരത്തിലുള്ള പ്രോജക്ട് മോടിലോട്ട് പോയി കഴിഞ്ഞിരുന്നു 2010 ആയപ്പോഴേക്കും പലതരത്തിലുള്ള റിലീസും വന്നിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രോജക്റ്റ് തുടങ്ങിയത് ഓസ്റ്റിനിൽ അങ്ങനെ ഉള്ളവരെ പ്രസ്താവിക്കുന്നുണ്ട് ഇതിന്റെ മൊത്തത്തിലുള്ള ആർക്കിടെക്ച്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കംപൊണന്റുകൾ ചിത്രങ്ങളുടെ സർവീസ് നോക്കുന്നു പല തരത്തിലുള്ള ചിത്രങ്ങളുടെ സർവീസ് കൊടുക്കുന്നു അത് ഓപ്പൺ സ്റ്റാക്കിലാണ് നടത്തുവാനാണ് സാധിക്കുക അടുത്തത് സ്വിഫ്റ്റ് സർവീസ് ആണ് ഉള്ളത് കീ സ്റ്റോൺ ആശയ വ്യക്തിത്വത്തിനുള്ള സർവീസുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പലതരത്തിലുള്ള സർവീസുകൾ ഇത് കൊടുക്കുന്നത് ഇവയെയെല്ലാം പല പ്രോജക്ട് മോഡിൽ നിന്നും ആണ് ഉണ്ടാക്കിയത് എങ്കിലും ഇവയെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കെട്ടായിട്ടായിരിക്കും കിട്ടുക ക്ലൌഡിൽ നിന്നും നമുക്ക് ഓപ്പറേഷണൽ ക്ലൌഡിനെ ഇന്റേണൽ അല്ലെങ്കിൽ ഇൻഹൌസ് ക്ലൌഡ് ഓപ്പൺ സോഴ്സ്സിൽ നിന്നും ഉപയോഗികുമ്പോൾ കിട്ടുന്നു ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകളെ വാങ്ങിക്കുവാൻ വില കുറവാണ് നിങ്ങളുടെ കൈയിൽ ഇൻഫ്രാസ്ട്രക്ചർ നേരത്തെ ഉണ്ടെങ്കിൽ അവയെ നമുക്ക് ഓപ്പൺ സ്റ്റാക്ക് അല്ലെങ്കിൽ മറ്റെതെങ്കിലും ക്ലൌഡ് ഓപ്പൺ സോഴ്സ്കൾ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിന്റെ നട്ടെല്ല് ആയിട്ട് ഒരു സ്റ്റാന്റേഡ് ഹാർഡ്വെയർ ഉണ്ട് അതിന്റെ കൂടെ കണക്കുകൂട്ടാൻ വേണ്ടി നെറ്റ്വർക്കിങ്ങ് സ്റ്റോറിങ്ങ് സർവീസുമുണ്ട് പിന്നെ ഓപ്പൺ സ്റ്റാക്കിന്റെ ഡാഷ്ബോർഡും സർവീസുകളുമാണ് വരുക അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഉപഭോക്താവിന്റെ ആപ്ലിക്കേഷനുകൾ ദാ ഈ ഗുഗിളിൽ നിന്നുമാണ് വരുന്നത് എന്നിട്ട് അത് എ പി ഐ എന്നിവയെ കാണുവാൻ സാധിക്കും ഇതിൻറെ ഡെമോ കാണിക്കുന്നതിനു മുമ്പ് നമുക്ക് ഈ കംപോണന്റുകളുടെ ചെറിയ ഒരു അവലോകനം നടത്താം പ്രധാനപ്പെട്ട ഒരു കംപോണന്റ് എന്നത് സർവ്വീസ് ആണ് അതിന് കമ്പ്യൂട്ട് ആണ് വരുന്നത് പ്രോജക്ട് നോവോ ആണ് ഇത് കമ്പ്യൂട്ടിന്റെ ജീവിത ചക്രത്തെ കൈകാര്യം ചെയ്യുന്നു ഓപ്പൺ സ്റ്റാക്കിന്റെ പരിസ്ഥിതിയിൽ ഇവിടെ വരുന്ന ഉത്തരവാദിത്തങ്ങൾ സ്പോണിംഗ് എന്നിവയാണ് അപ്പോൾ ഇത് പ്രധാനമായും vm ഷെഡ്യൂളിംഗ് vm സ്പോണിംഗ് പിന്നെ വെർച്ച്വൽ മെഷീന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഡീകമ്മീഷനിംഗ് റിലീസിംഗ് കൈകാര്യം ചെയ്യുന്നു ഇവിടെ പലതരത്തിലുള്ള vm കൾ ഉണ്ട് ഒരു പ്രത്യേക ക്ലൌഡിന്റെ പരിസ്ഥിതിയിൽ പലതരത്തിലുള്ള കോൺഫിഗറേഷനും ഉണ്ട് ഉപഭോക്താവ് ഡാഷ്ബോർഡിലൂടെ അപേക്ഷിക്കുന്നു മാനേജർ അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ആൾ പലതരത്തിലുള്ള vm കൾ ഉപഭോക്താവിന് ആവശ്യാനുസരണം കൊടുക്കുന്നു അപ്പോൾ ഈ സ്റ്റോറേജിന് അകത്ത് ക്ഷണികമായതും സ്ഥിരമായതും ആയിട്ടുള്ള സ്റ്റോറേജുകൾ വി എമ്മുമായി കൂടിച്ചേർന്ന് വരും ഇതിനെ കമ്പ്യൂട്ടിന് അകത്തോ അല്ലെങ്കിൽ നോവോ സർവീസിന് അകത്തു നിന്നാണ് ഉപയോഗിക്കാൻ പറ്റുക മറ്റൊന്ന് ഉള്ളത് നെറ്റ്വർക്കിംഗ് അത് സഹായിക്കുന്നു ഓപ്പൺ സ്റ്റാക്ക് മറ്റുള്ള കണക്കു കൂട്ടലിനെ സഹായിക്കുന്നു നമ്മുടെ കൈയിൽ മറ്റുള്ള ഓപ്പൺ സ്റ്റാക്ക് ഉണ്ടെങ്കിൽ അതായത് കംപ്യൂട്ട് അല്ലെങ്കിൽ നോവ സ്റ്റോറേജ് സർവീസ് അങ്ങനെയുള്ളവ ഉണ്ടെങ്കിൽ ന്യൂട്രോൺ നെറ്റ്വർക്ക് അതും ക്ലൌഡിന് പുറത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലൌഡിന്റെ ഒരു ഓപ്പൺ സോഴ്സ് ഉണ്ട് അതിനെ ഞങ്ങൾ മേഘമാല എന്നാണ് വിളിക്കുന്നത് അതിനെ ഫാക്കൽറ്റിമാർക്കും റിസർച്ച് സ്കോളർമാർക്കും അവരുടെ കണക്കുകൂട്ടലുകളുടെ ആവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അത് പലരീതിയിലാണ് കിട്ടുക അതിന്റെ ഉദാഹരണം ഞാൻ കാണിക്കാം ഇതിന് അപ്പോൾ ഇന്റേണൽ നെറ്റ്വർക്ക് ഉണ്ട് എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ഇതിന് ഐഐടി യുടെ നെറ്റ്വർക്കാണ് അപ്പോൾ ഇത് ഇൻ ഹൌസ് ക്ലൌഡ് ആണ് പുറത്തെ ലോകത്തിന് ഇതിൽ കയറാൻ സാധിക്കുകയില്ല പക്ഷേ ക്ലൌഡ് എന്നത് ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒന്നാണ് അത് പല കംപോണന്റുകളുമായി സമ്പർക്കം പുലർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നിട്ട് ഒരു എക്സ്റ്റേണൽ ലിങ്കും കൊടുക്കുന്നു അതിന്റെകൂടെ സർവീസും അതിലൂടെ നമുക്ക് എക്സ്റ്റേണലിലോട്ട് ഒരു ബന്ധം കിട്ടുന്നു ഇത് ന്യൂട്രോൺ ടെക്നോളജിയെയും പിന്താങ്ങുന്നു ഇത് നെറ്റ്വർക്കിങ്ങ് വെൻടേഴ്സിന്റെയും ടെക്നോളജിയുടെയും ഇടയിൽ ജോലി ചെയ്യുന്നു അതു കാരണം ഇതിനെ ഉപയോഗിക്കുവാൻ പറ്റും ഓപ്പൺ സ്റ്റാക്കിൽ അടുത്തത് സ്റ്റോറേജ് സർവീസാണ് അത് സിഫ്റ്റിന്റെ പ്രോജക്ടിന്റെ അടിയിൽ ആണ് വരുന്നത് അത് ആർബിട്ടറി അൺസ്ട്രക്ച്ചേട് എന്നിവ API യുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് കാരണം ഇത് ഹൈലി ഫോൾട്ട് ടോളറന്റ് ആണ് ഇവിടെ ഡേറ്റയുടെ പകർപ്പ് ഉണ്ടാക്കുകയും ആർക്കിടെക്ചറിൽ സ്കെയിൽഔട്ട് ഉണ്ടാക്കും അപ്പോൾ ഇതിനെ ഫോൾട്ട് ടോളറന്റ് ആക്കുവാൻ വേണ്ടി ഇത് മറ്റുള്ളതിലോട്ട് എഴുതിവയ്ക്കും നമ്മൾ നേരത്തെ ഇതിനെ കുറിച്ചു പറഞ്ഞിരുന്നു മൂന്നു പകർപ്പുകൾ ആണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മൂന്നു സ്ഥലങ്ങളുകളിലേക്ക് പകർത്തി വക്കുന്നു ശരിയായ ഓപ്പറേഷൻ വരുമ്പോൾ ഈ ശരിയായിട്ടുള്ളവ എല്ലാം കൂടി ചേർന്ന് വരുന്നു അതേ സമയം ഇതിനെ വാങ്ങിക്കുയാണെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു പകർപ്പ് പ്രതികരിക്കും സിഫ്റ്റ് ഇതുപോലെ ഉള്ളതാണ് തരുന്നത് അതായത് ഫോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള സർവീസുകൾ മറ്റൊരു തരത്തിലുള്ള സ്റ്റോറേജ് സർവീസ് എന്നത് ബ്ലോക്ക് സ്റ്റോറേജ് തരുന്നുണ്ട് അതിലൂടെ ബ്ലോക്ക് സ്റ്റോറേജ് ഉണ്ടാക്കുന്നതും കൈകാര്യം ചെയ്യുന്നതിനേയും സഹായിക്കുന്നു അടുത്ത കംപോണന്റ് സ്റ്റോറേജിന്റേയോ കമ്പ്യൂട്ടിന്റേയോ താഴെ നേരിട്ട് വരുന്നില്ല എന്നാലും അവ ക്ലൌഡിൽ വളരെ പ്രധാനമായ പങ്കാണ് വഹിക്കുന്നത് ഒരു കേന്ദ്രബിന്ദുവാണ് കീ സ്റ്റോൺ പ്രൊജക്ടുകളിൽ അത് മറ്റ് ഓപ്പൺ സ്റ്റാഫ് സർവീസുകൾക്കുള്ള പ്രാധാന്യവും അംഗീകാരവും കൊടുക്കുന്നു അപ്പോൾ ഇത് ഒരു ഐഡൻറിറ്റി സർവീസ് കൊടുക്കുന്നു അടുത്ത കംപോണൻറ് ഗ്ലാൻസ് അല്ലെങ്കിൽ ഇമേജ് സർവീസ് ആണ് അത് അടിസ്ഥാനപരമായി ഓപ്പൺസ്റ്റാക്ക് ആണ് അത് ചിത്രങ്ങളെ അല്ലെങ്കിൽ ഇമേജ് സർവീസിനെ വേർതിരിക്കാനും പലതരത്തിലുള്ള vm കളിൽ അവയെ കയറ്റാനും സഹായിക്കുന്നു ഓരോ vm കളും ഉപഭോക്താവിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം സർവീസുകൾ ഗളാൻസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഗളാൻസ് സർവീസുകൾ ആണ് തരുന്നത് നമുക്ക് വെർച്ച്വൽ മെഷ്യൻന്റെ ഡിസ്കിന്റെ ചിത്രങ്ങൾ ഇവിടെ സൂക്ഷിക്കുവാൻ സാധിക്കും അവയെ എടുക്കാനും ഗ്ലാൻസ് ഉപയോഗിച്ച് സാധിക്കും ഓപ്പൺ സ്റ്റാക്കിലെ കംപ്യൂട്ടർ ഇൻസ്റ്റന്സ് പ്രൊവിഷനിങ്ങും ഉപയോഗിക്കാറുണ്ട് എപ്പോഴൊക്കെയാണോ ഇൻസ്റ്റന്സ് പ്രൊവിഷനിങ്ങ് ആവശ്യം വരുന്നത് അപ്പോൾ അവ ഈ സ്റ്റോറേജ് സർവീസ് ഉപയോഗിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജ് സർവീസ് കിട്ടും പല തരത്തിലുള്ള ഇമെജകൾ ഈ ഓപ്പറെഷൻ സിസ്റ്റത്തിൽ കിട്ടും ഉപഭോക്താവിന്റെ ആവശ്യമനുസരിച്ച് അത് എടുക്കാവുന്നതാണ് ചിത്രങ്ങളെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് ഓപ്പൺ സ്റ്റാക്കിലാണ് ഇവിടെ സർവീസ് വരുന്നത് ടെലിമെട്രി ആണ് അത് സിലോമീറ്റർ ആണ് ക്ലൌഡിലെ ഓപ്പൺ സ്റ്റോക്കിലെ ബില്ലിങ്ങിനെയും ബെൻജ് മാർക്കിങ്ങിനേയും സെകയിലബിലിറ്റിയെയും സ്റ്റാറ്റിസ്റ്റിക്കൽ ജോലികളെയും അത് നിരീക്ഷിക്കുകയും അളക്കുകയും ചെയ്യുന്നു ക്ലൌഡ് സർവീസിൽ ഇവയെ എല്ലാം അളക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലൌഡ് ഒരു മീറ്റർ സർവീസാണ് അതായത് എല്ലാത്തിനെയും അതിന് അളക്കുവാൻ സാധിക്കും അപ്പൊൾ ഈ സിലോമീറ്ററും ടെലിമെട്രിക് സർവീസും ക്ലൌഡിലാണ് ഉള്ളത് ഓപ്പൺ സ്റ്റോക്കിൽ അത് ബില്ലിങ്ങിനെയും ബൻജ് മാർക്കിങ്ങിനേയും സ്കെയിലബിലിറ്റിയേയും സ്റ്റാറ്റിസ്റ്റിക്കൽ ജോലികളെയും നിരീക്ഷിക്കുവാനും അളക്കുവാനും സഹായിക്കുന്നു ഇത് മീറ്റിങ്ങിനു വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് നമ്മുടെ കൈയിൽ ഈ മെഷർഡ് സർവീസുകൾ ഉള്ളത് ആവശ്യം വരും ഇവിടെ നമുക്ക് വിലാസത്തിന്റെ ബെഞ്ച്മാർക്കിങ് ചെയ്യാൻ സാധിക്കും പിന്നെ റിസോഴ്സിന്റെ സ്കെയിലബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും നടത്താം ഇതെല്ലാം ഇവിടെ ലഭ്യമാണ് ഇത് കണക്കുകൂട്ടാനോ സ്റ്റോറേജിനോ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗിനോ നേരിട്ട് സഹായിക്കുന്നില്ല അത് നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി എന്തിനെ വേണമെങ്കിലും ഉപയോഗിക്കും അതായത് മേജർ കംപോണന്റുകളെ ഉപയോഗിക്കും പക്ഷെ ഒരു ചെറിയ കാര്യമല്ല ഇവിടെ ചെയ്യുന്നത് മീറ്റേട് സർവീസുകളെ മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു അതിന്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുകയും ചെയ്യുന്നു ഇവിടെ അത് റിസോഴ്സുകളുടെ ഗുണങ്ങളെ അളക്കാനും സഹായിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇത് ഭാവിയിലുള്ള ആവശ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കുകയും പ്രോസ്സസറിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നട്ടെല്ല് ആയിട്ട് ഇരിക്കുമ്പോൾ അതിനെ ഇങ്ങനെ ഭാവിയെ കുറിച്ചും പറഞ്ഞു തരുന്നു അവിടെയുള്ള ആവശ്യങ്ങളെ കുറിച്ചും കാണിക്കും ഇത് പരിശീലിപ്പിക്കുകയും ചെയ്യും ആനുകാലികമായ ആവശ്യങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞുതരും ഉദാഹരണത്തിന് ഓരോ ദിവസവും എത്ര ലോഡ് നോക്കുകയും ചെയ്യുന്നു നമുക്ക് ഇവിടെ ആവശ്യം വരുന്നത് പലതരത്തിലുള്ള ഡേറ്റ ആണ് ഈ ടെലിമെട്രി സർവീസ് നമുക്ക് അത് തരുന്നു ഇനി അടുത്ത കംപോണൻറ് ഡാഷ്ബോർഡ് ആണ് അത് പ്രോജക്ട് ഹൊറൈസന്റെ നിയന്ത്രണം കൊടുക്കാൻ ആണെങ്കിലും ഇത് പ്രോജക്ട് ഹൊറയ്സൺന്റെ അടിയിൽ വരുന്ന ഡാഷ്ബോർഡ് ആണ് ഇത് വെബ് അടിസ്ഥാനമാക്കിയുള്ള സെൽഫ് സർവീസ് പോർട്ടൽ ഉണ്ടാക്കുന്നു അത് ഓപ്പൺ സ്റ്റാക്ക് സർവീസുമായി സമ്പർക്കം പുലർത്തുന്നു അതായത് ലൌഞ്ചിങ്ങ് അല്ലെങ്കിൽ ഇൻസ്റ്റെന്റ് ലൌഞ്ചിങ്ങ് അല്ലെങ്കിൽ ഐപി അഡ്രസ്സ് കൊടുക്കുക അതും അല്ലെങ്കിൽ കോൺഫിഗറിങ്ങ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു ഇനി നമ്മുടെ ഡെമോ കാണിക്കാം അവിടെ നിങ്ങൾക്ക് ഇവയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കാണാം ഉപഭോക്താവിന്റെ കൈകാര്യം ചെയ്യലും അതുപൊലെ റിസോഴ്സിനെ കൈകാര്യo ചെയ്യുന്നതും കാണിക്കും നമ്മൾക്ക് വി എം കൊടുക്കാനും ഐപി അഡ്രസ്സ് കൊടുക്കാനും ആവശ്യം വരും അവിടെ പ്രവേശിക്കുവാനുള്ള നിയന്ത്രണം കൊടുക്കുകയും ചെയ്യും അതിന്റെ കൂടെ ചിത്രങ്ങളെ ലോഡ് ചെയ്യുവാനും ഇത് ഉപയോഗിക്കും ഇത് മറ്റൊരു പ്രധാന ഘടകമാണ് അത് ഫ്രോണ്ടഡ് ഇൻറർഫേസിൽ നിന്ന് ക്ലൌഡിനെ കൈകാര്യം ചെയ്യുന്നു ഇതിൽ മൊത്തത്തിലുള്ള ആർക്കിടെക്ച്ചർ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കംപോണന്റുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാം ഓപ്പൺ സ്റ്റാക്കിൽ ഒബ്ജക്ട് സ്റ്റോറേജ് ഉണ്ട് അവിടെ സിഫ്റ്റ് ഉണ്ട് ഇമേജ് സർവീസ് തരുന്നത് പിന്നെ ഗ്ലാൻസ് ആണ് കംപ്യൂട്ട് സർവീസ് നോവയിൽ ആണ് പിന്നെ ബ്ളോക്ക് സ്റ്റോറേജ് ഉണ്ട് അത് സിൻണ്ടറിൽ ആണ് അതിനു ശേഷം നെറ്റ് വർക്കിങ്ങ് ഉണ്ട് അത് ന്യൂട്രോൺ ആണ് പിന്നെയുള്ളത് ഓപ്പൺ സ്റ്റാക്ക് ഐഡൻറിറ്റി സർവീസ് അത് കീ സ്റ്റോൺ ആണ് അപ്പോൾ പലതരത്തിലുള്ള സർവീസുകൾ ഇവിടെയുണ്ട് നമ്മൾ ഹൊറൈസനെ നേരത്തെ കണ്ടു അത് നമുക്ക് ഡാഷ്ബോർഡിനെ നോക്കാൻ സഹായിക്കുന്നു ഇൻറർനെറ്റിലൂടെ ഉപഭോക്താക്കൾ ഇവിടെ നിർദ്ദേശം കൊടുക്കുന്നു നോവ ന്യൂട്രോൺ സ്വിഫ്റ്റ് അങ്ങനെയങ്ങനെ ക്ലൌഡ് മാനേജ്മെൻറ് ടൂളുകൾ ആയിട്ടുള്ള റൈറ്റ് സ്കെയിൽ അങ്ങനെയുള്ളവ ഇതിന് അപ്പോൾ ഉപഭോക്താവിന്റെ ഒരു ഇൻറർഫേസ് ഉണ്ട് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അത് ഉപയോഗിക്കാം പിന്നെ ഇത് മുകളിലത്തെ നിലയിൽ നിന്നും ഓപ്പൺ സ്റ്റോക്ക് മോഡ്യൂളുകളെ എങ്ങനെയൊക്കെയാണ് ബന്ധിച്ചിരിക്കുന്നത് എന്ന് കാണിക്കുന്നു ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഇതിലൂടെ പോകുന്നത് എന്ന് വ്യക്തമായി കാണിക്കുന്നു കുറച്ചുകൂടി സൈറ്റുകൾ ഇവിടെ ഉണ്ട് അത് ഓരോരോ കംപോണന്റിന്റെ ആണ് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായി നോക്കുന്നില്ല പക്ഷേ ഏതൊക്കെയാണ് ആ കംപോണന്റുകൾ എന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഓപ്പൺ സ്റ്റോക്കിന്റെ വർക്ക് ഫ്ലോ കാണാം അതിൽ പല തരത്തിലുള്ള കംപോണന്റുകൾ അതായത് നോവകമ്പ്യൂട്ടിന് ഉപയോഗിക്കുന്നു സിൻഡർ ബ്ലോക്ക് സ്റ്റോറേജിന് ഉപയോഗിക്കുന്നു ഇതെല്ലാം കാണാം പിന്നെ കമ്പ്യൂട്ടർ നോഡുകൾ നോവയിലാണ് ഉള്ളത് നോവയ്ക്കകത്തുതന്നെ വേറെ കംപോണന്റുകളുമുണ്ട് സിലിണ്ടറിന് സ്വന്തമായ കംപോണന്റുകളുണ്ട് ന്യൂട്രോൺ എന്നത് ഒരു നെറ്റ്വർക്കിംഗ് ആശയമാണ് അപ്പോൾ ന്യൂട്രോൺ API ഷെഡ്യൂളർ പ്ലഗിൻ ക്യൂസ് ഇവയെല്ലാം നെറ്റ്വർക്കിംഗ് മായി ബന്ധപ്പെട്ട കംപോണന്റുകൾ ആണ് നമ്മുടെ കയ്യിൽ പിന്നെ സിലോമീറ്റർ ഉണ്ട് അത് ഒരു ടെലിമെട്രിക് കംപോണന്റ് ആണ് അതിനെ നമ്മൾ സർവീസിനെ അളക്കാനും ഉപയോഗിക്കുന്നു പിന്നെ വരുന്നത് കീസ്റ്റോൺ ആണ് അത് ഐഡൻറിറ്റി സർവീസ് ആണ് യൂസർ ലോഗ് സീനിൽ അമർത്തുന്നു പിന്നെ ഹൊറൈസൺ HTTP അപേക്ഷ കീസ്റ്റോണിന് അയക്കുന്നു അങ്ങനെ ഹെഡ്ഡറിൽ പറയുന്ന രീതിയിലുള്ള വിവരങ്ങൾ അംഗീകരിക്കപ്പെടുന്നു പ്രാമാണ്യം കൊടുക്കുന്നു ഇവിടെ ഹൊറൈസൺ അല്ലെങ്കിൽ ഡാഷ് ബോർഡ് സർവീസ് വിവരങ്ങളെ അയച്ചു കൊടുക്കുന്നു അതിനെ വീണ്ടും സർവീസ് ചെയ്യുന്നു എന്നിട്ട് കീസ്റ്റോൺ തൽക്കാലത്തേക്കുള്ള ഒരു ടോക്കണെ ഒരു പ്രാവശ്യം വന്നാൽ ഈ ഹൊറൈസൺ കമ്പ്യൂട്ടർ സർവ്വറിലോട്ട് അയച്ചു കൊടുക്കുന്നു അത് ഓപ്പറേഷൻ ആയിട്ട് മാറുന്നു അവസാനം നോവ API HTTP യിലോട്ട് അയക്കുന്നു എന്നിട്ട് API ടോക്കൺ കേസ് 2 ആയിട്ട് താരതമ്യം ചെയ്യുന്നു ഇങ്ങനെയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് ഇവിടെ ഈ ടോക്കൻ കൈമാറ്റ മെക്കാനിസം നോക്കുകയാണെങ്കിൽ അത് തുടങ്ങുന്നത് ഉപദോക്താവിൽ നിന്നാണ് അവിടെ നിന്ന് കീ സ്റ്റാണിളിലേക്ക് പോകുന്നു അവിടെ വച്ച് അതിന് പ്രാമാണ്യം കൊടുക്കുന്നു അതിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു അതിനു ശേഷം അത് നോവയിലൊട്ട് പോകുന്നു പിന്നെ ഗ്ളാൻസിലേക് പോകുന്നു അതിനു ശേഷം ന്യൂട്രോണിലേക്കും പൊക്കുന്നു ഇതാണ് ഈ പ്രൊസ്സസ് ഫ്ളോ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ ഇവിടെ പ്രൊവിഷണിങ്ങ് ഫ്ലോ കൂടി ഉണ്ട് അവിടെ നോവ എ പി ഐ ഷെഡ്യൂൾളർലെക്ക് ആർ പി സിയിലെക്ക് കൊടുക്കുന്നു ഷെഡ്യൂളറർ മെസ്സേജ് ക്യൂ കൊടുക്കുന്ന സന്ദേശങ്ങളെ എടുക്കുന്നു അതു പോലെ ഷെഡ്യൂളർ ഡേറ്റാ ബെയിസിന്റെ മൊത്തത്തിലുള്ള ക്ലസ്റ്ററിന്റെ വിവരങ്ങളെ എടുത്തിട്ട് അവയെ ഫിൽട്ടർ ചെയ്തതിനു ശേഷം കംപ്യൂട്ട് നോടുകളെ തിരഞ്ഞെടുക്കുന്നു ഷെഡ്യൂളർ ഈ സന്ദേശങ്ങളെ കംപ്യൂട്ട് ക്യൂവിലോട്ട് പ്രസിദ്ധികരിക്കുന്നു നോവാ കംപ്യൂട്ടിന് നോവാ മെസ്സേജ് ക്യൂവിൽ നിന്നുമാണ് സന്ദേശങ്ങൾ കിട്ടുന്നത് നോവ കംപ്യൂട്ടിങ് നോവ കണ്ടക്ടറിലോട്ട് ഒരു ആർ പി സി കോൾ കൊടുക്കുന്നു അങ്ങനെ ആണ് ഓപ്പൺ സ്റ്റാക്കിൽ പ്രൊവിഷ്യനിങ്ങ് നടത്തുന്നത് പിന്നെ നമ്മുടെ കൈയിൽ ഒറ്റയായ കംപോണന്റുകൾ ഉണ്ട് കമ്പ്യൂട്ടർ ഡ്രൈവർ പോലെ അത് വിപുലീകരിച്ച ഒന്നാണ് നമ്മൾ ഓപ്പൺ സ്റ്റാക്കിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല അതിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ സ്രോതസ്സുകളിൽ തിരയാം അതുപോലെ നമ്മുടെ കയ്യിൽ ന്യൂട്രോൺ ആർക്കിടെക്ചർ ഉണ്ട് അത് ഒരു നെറ്റ്വർക്കിംഗ് ആർക്കിടെക്ചർ ആണ് ന്യൂട്രോണിനെ പോലെ തന്നെ ഇതിന് ഒരുപാട് കംപോണന്റുകൾ ഇതിന്റെ ഫോൾഡറിനകത്ത് ഉണ്ട് ഗ്ലാൻസ് എന്നത് ഒരു ഇമേജ് സർവീസ് ആണ് ഇതിന് ഗ്ലാൻസ് ഡേറ്റാ ബേസും ഉണ്ട് എന്തൊക്കെ സർവീസുകളുണ്ട് എന്ന് ഇവിടെയുണ്ട് പിന്നെ ഗ്ലാൻസ് API സ്റ്റോറേജ് അഡോപ്റ്റർ എന്നിവയുമുണ്ട് അങ്ങനെ നമുക്ക് വീണ്ടും കുറെ കംപോണന്റുകൾ ഗ്ലാൻസിനകത്ത് വരുന്നതായി കാണാം അതുപോലെ സിഡർ ആർക്കിടെക്ച്ചർ അത് ഒരു ബ്ളോക് സ്റ്റോറേജ് ആണ് അതിന്റെ അടിയിലും ഒരുപാട് പ്രധാനപെട്ട കംപൊണന്റ്കൾ ഉണ്ട് സിഡർ ഡേറ്റാബേസ് ഷെഡ്യൂളർ എ പി ഐ വോളിയംസ് പിന്നെ ബാക്ക് അപ്പ് സർവീസ് എന്നിവയാണ് അടുത്തത് കീ സ്റ്റോൺ അത് ഐഡൻററിറ്റി തരത്തിൽ ഉള്ള സർവീസാണ് അതിനു പല കംപൊണന്റുകളും ഉണ്ട് ടോക്കനിൽ ഉള്ള പോളിസി ഇതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കംപോണന്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ ഓപ്പൺ സ്റ്റാക്ക് സ്റ്റോറേജിന്റെ ആശയമനുസരിച്ച് അവ മറ്റു ക്ലൌഡ് സ്റ്റോറേജിനെ പോലെയാണ് ഉദാഹരണത്തിന് ഇഫിമെറൽ സ്റ്റോറേജ് അവിടെ vm നിർത്തുന്നതുവരെ ഇത് നിലനിൽക്കും അതിൽ കയറാൻ പറയുന്നത് vm ലൂടെയാണ് ലോക്കൽ ഫയൽ സിസ്റ്റം പോലെ അപ്പോൾ vm നിറുത്തലാക്കുമ്പോൾ ഇത് നിന്നു പോകും ഇതിനെ സിസ്റ്റത്തെ ഓപ്പറേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സ്പെയിസിനെ സ്ക്രാച്ച് ചെയ്യുവാൻ വേണ്ടി ഇതിനെ കൈകാര്യം ചെയ്യുന്നത് നോവയാണ് ഇനി അടുത്തത് ബ്ളോക്ക് സ്റ്റോറേജ് അത് ഉപഭോക്താവ് മായ്ച്ചു കളയുന്നതുവരെ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് ഉപഭോക്താവ് മാച്ചു കളയുന്ന ഇവരെ തുടർന്നുകൊണ്ടേ ഇരിക്കും ഇതിനെ കിട്ടുന്നത് വി എം മിൽ നിന്നുമാണ് ബ്ളോക് ഡിവയസ് പോലെ കൂടുതൽ നില നിൽക്കുന്ന സ്റ്റോറേജകളെ വി എം ലോട്ട് കേറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഓപ്പറേഷൻ സിസ്റ്റത്തിലേക്ക് കേറ്റാൻ വേണ്ടി ഇവയെ നമ്മൾ ഉപയോഗിയുന്നു ഇതിനെ കൈകാര്യം ചെയ്യുന്നത് സിൻണ്ടർ ആണ് അടുത്തത് നമ്മുടെ കൈയിൽ ഉള്ളത് ഒബ്ജക്റ്റ് സ്റ്റോറേജാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് സിഫ്റ്റ് ആണ് അതു ഉപദോക്താവ് മായിച്ച് കളയുന്നതു വരെ നിലനിൽക്കും അതിനെ എവിടെ നിന്നു വേണമെങ്കിലും നമുക്ക് എടുക്കുവാൻ സാധിക്കും അതുപോലെ ഫയലുകളെയും അതു പോലെ വി എം ചിത്രങ്ങളെയും സൂക്ഷിക്കുവാൻ ഇത് ഉപയോഗിക്കും വി എം ചിത്രങ്ങൾ സാധാരണ ഗ്ളാൻസ് സർവീസാണ് കൈകാര്യം ചെയ്യുന്നത് അവയെ നമുക്ക് ഇവിടെ ഒബ്ക്ട് സ്റ്റോറേജിൽ സൂക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉപഭോക്താവ് ഹൊറൈസണിലോട്ട് കയറിയതിനു ശേഷം vm നെ ഉണ്ടാക്കുന്നതിന് പ്രേരണ കൊടുക്കുന്നു കീസ്റ്റോൺ അംഗീകാരം കൊടുക്കുന്നു നോവ പ്രൊവിഷനിങ്ങിന് തുടക്കമിടുന്നു എന്നിട്ട് സ്റ്റേറ്റിനെ ഡേറ്റാബേസ് ആക്കി സൂക്ഷിക്കുന്നു നോവ ഷെഡ്യൂളർ ശരിയായിട്ടുള്ള ഹോസ്റ്റിനെ കണ്ടുപിടിക്കുന്നു ന്യൂട്രോൺ നെറ്റ്വർക്കിങ്ങിന് തയ്യാറാകുന്നു സിൻഡർ ബ്ലോക്ക് ഡിവൈസിനെ കൊടുക്കുന്നു ഗ്ലാൻസിൽ നിന്നും ചിത്രത്തിന്റെ URI കണ്ടുപിടിക്കുന്നു ചിത്രത്തെ നമ്മൾ എടുക്കുന്നത് സ്വിഫ്റ്റ് വഴിയാണ് vm നെ തരുന്നത് ഹൈപ്പർവൈസറാണ് അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഓപ്പൺ സ്റ്റാക്കിന്റെ അല്ലെങ്കിൽ ക്ലൌഡിന്റെ ഓപ്പൺ സോഴ്സ്സിന്റെ ഒരു രത്നച്ചുരുക്കം ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ഡെമോ കാണിക്കാം കഴിവതും അതൊരു ലൈവ് ഡെമോ ആക്കാൻ ശ്രമിക്കാം ഐഐടി ഖരത്പൂരിലെ ഓപ്പൺ സ്റ്റാക്കിന്റെ ഇൻസ്റ്റലേഷൻ കാണിച്ചുതരാം അതിൽ നമുക്ക് എങ്ങനെയാണ് vm നെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചു നോക്കാം